ഹലോ ഇന്ന് നമ്മൾ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ മറ്റ് വശങ്ങളിലൊന്ന് ചർച്ച ചെയ്യും മെച്ചപ്പെട്ട സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് സാങ്കേതികവിദ്യയെ പ്രാപ്തമാക്കുന്ന മറ്റൊരു കമ്പനിയും സാങ്കേതികവിദ്യയും അതിനാൽ തന്നെ ഇന്ന് നമ്മൾ ഐഒടി ക്ലൌഡിനെക്കുറിച്ച് ചർച്ച ചെയ്യും ഐഒടി ക്ലൌഡ് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ ഐഒടിയുമായുള്ള ഈ ക്ലൌഡ് സാങ്കേതികവിദ്യയുടെ അല്ലെങ്കിൽ ക്ലൌഡ് തത്ത്വചിന്തയുടെ സംയോജനമാണിത് ഇത് ഇന്റർനെറ്റിന്റെ കാര്യങ്ങളുടെ അല്ലെങ്കിൽ ക്ലൌഡ് സേവനങ്ങളുടെ മൊത്തത്തിലുള്ള പ്രകടനത്തെ എങ്ങനെ സഹായിക്കും അതിനാൽ പ്രചോദനം പരിശോധിച്ചാൽ സെൻസിംഗ് ടെക്നോളജി ആർഎഫ്ഐഡി ക്യാമറകൾ മൊബൈൽ ഫോണുകൾ എല്ലാം എന്തും എല്ലാം എന്നിവയുടെ അനുരൂപീകരണം വർദ്ധിക്കുന്നുവെന്ന് വ്യക്തമാണ് അതിനാൽ വ്യത്യസ്ത തരം മെക്കാനിസങ്ങളിൽ സെൻസർ ഉപകരണങ്ങൾ വ്യാപകമായി ലഭ്യമാണ് അതിനാൽ നമ്മൾ സെൻസർ ക്ലൌഡിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സെൻസിംഗ് ഉപകരണം തന്നെ ഇവിടെ നമ്മൾ നോക്കുന്നത് സർവ്വവ്യാപിയായി ലഭ്യമായ സെൻസിംഗ് ഉപകരണങ്ങളാണെന്നതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളാണ് അതിനാൽ കാര്യങ്ങൾക്കിടയിൽ വളരെ നേർത്ത വ്യത്യാസമാകാം പക്ഷേ ഇത് കൈകാര്യം ചെയ്യുന്നതിന് വ്യത്യസ്തമായ ഒരു മാർഗമുണ്ട് കൂടാതെ മിക്ക കേസുകളും കൂടുതൽ ആപ്ലിക്കേഷൻ അധിഷ്ഠിത കാര്യങ്ങളാണ് ഭൌതികവും വിർച്വൽ ലോകവും തമ്മിലുള്ള ദൂരം കുറയ്ക്കുന്നതിന് വയർലെസ് സെൻസർ നെറ്റ്വർക്കുകളോ സാങ്കേതികവിദ്യയോ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഭൌതിക ലോകത്തെ ഡിജിറ്റൈസ് ചെയ്ത ലോകത്തേക്ക് കൊണ്ടുപോകാനും അവരുടെ ഭൌതിക പരിതസ്ഥിതിയിൽ മാറ്റങ്ങളോട് പ്രതികരിക്കാൻ കാര്യങ്ങൾ പ്രാപ്തമാക്കാനും ഇത് നമ്മളെ സഹായിക്കുന്നു അതിനാൽ ശരിയായ കാര്യങ്ങളുടെ താപനിലയെ അടിസ്ഥാനമാക്കി എന്റെ വായു അടങ്ങിയ സംവിധാനം മാറുമെന്ന് ഞാൻ പറയുന്നു താപനില സെൻസർ എയർ കണ്ടീഷനിംഗ് പ്രക്രിയ സജീവമാക്കുന്നു അല്ലെങ്കിൽ അത് താപനില കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു അല്ലെങ്കിൽ എയർ കണ്ടീഷനിംഗ് നിയന്ത്രണ സംവിധാനം ഈ സെൻസറുകൾ നിയന്ത്രിക്കുകയോ സജീവമാക്കുകയോ ചെയ്യുന്നു അതിനാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ സെൻസറുകൾ മറ്റ് ചില കാര്യങ്ങൾ സജീവമാക്കുന്നു അതിനാൽ അത്തരം കാര്യങ്ങൾ അവിടെയുണ്ട് അതിനാൽ സന്ദർഭത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്ന വിവരങ്ങൾ സൃഷ്ടിക്കുന്ന സെൻസറുകൾ അവരുടെ പരിസ്ഥിതിയിൽ നിന്ന് ഡാറ്റ ശേഖരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഇവിടെ കാണുന്നത് പോലെ വൈവിധ്യമാർന്ന സെൻസറുകൾ വസ്തുക്കൾ അല്ലെങ്കിൽ വസ്തുക്കൾ എന്ന് വിളിക്കപ്പെടുന്നു അവയ്ക്ക് വ്യത്യസ്ത തരം കണക്റ്റിവിറ്റികളുണ്ട് ചിലപ്പോൾ ബാക്കിയുള്ളവയുമായി വയർലെസ് ആയിരുന്നു അതിനാൽ ഒരർത്ഥത്തിൽ സെൻസറുകൾ ഒരുപോലെയാണ് ഒരു ഇലക്ട്രോണിക് ജാക്കറ്റിലെ സെൻസർ ഒരു ഇലക്ട്രോണിക് ജാക്കറ്റ് ധരിച്ച ഒരാൾ ബാഹ്യ താപനിലയിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാം ഒപ്പം ജാക്കറ്റിന്റെ പാരാമീറ്ററുകൾ അയയ്ക്കും ഇത് അടിസ്ഥാനമാക്കി ചൂടാക്കാം താപനിലയുടെ ഇടിവും മറ്റും അതിനാൽ നമ്മുടെ എല്ലാ സാഹിത്യത്തിലും നമ്മൾ കേൾക്കുന്നതുപോലുള്ള കാര്യങ്ങളുടെ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഓഫ് തിങ്ങ്സ് എന്ന് വിളിക്കുന്നു അതിനാൽ വസ്തുക്കൾക്കോ ആളുകൾക്കോ അദ്വിതീയ ഐഡന്റിഫയറുകൾ നൽകിയിട്ടുണ്ടെന്നും അത് തിരിച്ചറിഞ്ഞതായും മനുഷ്യർ തമ്മിലോ മനുഷ്യനും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഇടപെടലുകളിലേക്ക് ആവശ്യമില്ലാതെ ഒരു നെറ്റ്വർക്കിലൂടെ ഡാറ്റ കൈമാറാനുള്ള കഴിവ് നൽകുന്നതുമായ ഒരു സാഹചര്യമാണിത് അതിനാൽ ഈ ഉപകരണങ്ങൾ ആശയവിനിമയം നടത്താൻ പ്രാപ്തമാക്കി ഇൻറർനെറ്റിലേക്കുള്ള ഡാറ്റ അതിനാൽ ഇൻറർനെറ്റിലെ കാര്യം ഹാർട്ട് മോണിറ്ററിംഗ് ഇംപ്ലാന്റ് ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ബയോചിപ്പ് ട്രാൻസ്പോണ്ടർ ഉള്ള ഒരു അനിമൽ ഫാം അല്ലെങ്കിൽ ടയർ മർദ്ദം കുറയുമ്പോൾ ഡ്രൈവറെ അലേർട്ട് ചെയ്യുന്നതിന് ബിൽറ്റ് ഇൻ സെൻസറുകളുള്ള ഒരു ഓട്ടോമൊബൈൽ ആകാം അല്ലെങ്കിൽ ചില മനുഷ്യർ പ്രവർത്തിപ്പിക്കുന്ന ഏതെങ്കിലും ഉപകരണങ്ങൾ അല്ലെങ്കിൽ അത് ഒരു ഐപി വിലാസത്തിൽ നിർണ്ണയിക്കാൻ കഴിയുന്ന പ്രകൃതിദത്ത അല്ലെങ്കിൽ മനുഷ്യനിർമിത വസ്തുവായിരിക്കാം അതിനാൽ ഐപി വിലാസം അദ്വിതീയമായി തിരിച്ചറിഞ്ഞ എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമായിരിക്കാം അതുവഴി ഈ അദ്വിതീയ കാര്യങ്ങളുമായി ശരിയായ രീതിയിൽ ആശയവിനിമയം നടത്താൻ കഴിയും ഒരു സെൻസർ സാധാരണ സെൻസർ വിന്യാസത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു അദ്വിതീയ ഐഡന്റിഫയർ ഇല്ലായിരിക്കാം ഡാറ്റയെക്കുറിച്ച് എനിക്ക് കൂടുതൽ താൽപ്പര്യമുണ്ട് അത് ശരിയായ കാര്യങ്ങളിലേക്ക് പോകുന്നു ഡാറ്റ പ്രധാനമാണെങ്കിലും എനിക്ക് ഇവിടെ കൂടുതൽ ആശങ്കയുണ്ട് എനിക്ക് ഇപ്പോഴും ഒരു വസ്തുവിനെ അദ്വിതീയമായി തിരിച്ചറിയാൻ കഴിയും അതിനാൽ യഥാർത്ഥ വിവര ഡാറ്റയും സേവനങ്ങളും നിലവിലെ വിവര നെറ്റ്വർക്കിംഗ് സാങ്കേതികവിദ്യകളുമായി സംയോജിപ്പിക്കാൻ പ്രാപ്തമാക്കുന്ന സാങ്കേതികവിദ്യകളും പരിഹാരങ്ങളും പലപ്പോഴും ഇൻറർനെറ്റ് എന്ന് വിളിക്കുന്ന വിശാല പദത്തിന് കീഴിൽ വിവരിക്കപ്പെടുന്നു അതാണ് മുഴുവൻ കാര്യങ്ങളുടെയും കാതൽ അതിനാൽ ദൈനംദിനമായി കൂടുതൽ വസ്തുക്കൾ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു അതിനാൽ വാഹനത്തിൽ നിന്ന് ഒരു ലാബിലെ ചില ഉപകരണങ്ങളിലേക്ക് ആരംഭിക്കുന്നത് നമ്മൾ കാണുന്നു അവിടെ ഒരു ലാബിലെ ഉപകരണം അല്ലെങ്കിൽ ചില ഫിൽട്ടറിംഗ് മെക്കാനിസങ്ങൾ അല്ലെങ്കിൽ ലൈറ്റിംഗ് സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ ലൈറ്റുകൾ എന്നിവ നിയന്ത്രിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവ എല്ലാം ആശയവിനിമയം നടത്തുന്നു സ്മാർട്ട് ഗ്രിഡിന്റെ കാര്യത്തിലും ഈ ആക്സസ്സ് നിരവധി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു അതിനാൽ വീട്ടിലെ ദൈനംദിന ജീവിത ഉപകരണങ്ങൾ ബിസിനസുകൾ പൊതു ഇൻഫ്രാസ്ട്രക്ചർ ആരോഗ്യ പരിരക്ഷ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ഒരു നീണ്ട പട്ടികയാണ് കൂടാതെ ദൈനംദിന കാര്യങ്ങൾ പ്രവർത്തനക്ഷമമാക്കുന്നു അതിനാൽ ഉപകരണങ്ങൾ നിയന്ത്രിക്കാനും മറ്റ് ചില ആപ്ലിക്കേഷനുകൾ തിരിച്ചറിഞ്ഞതിനെ അടിസ്ഥാനമാക്കി മറ്റ് ചില ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനും ഞങ്ങൾക്ക് കഴിയും അതിനാൽ ഇവിടെ ഇത് എല്ലായ്പ്പോഴും സെൻസിംഗ് വഴി സജീവമാക്കുന്നു അതിനാൽ ഇത് എപ്പോൾ വേണമെങ്കിലും എനിക്ക് പറയാൻ കഴിയുന്ന മറ്റൊരു തരത്തിലാണ് ആർക്കും ഏത് സ്ഥലത്തിനും കണക്റ്റിവിറ്റി അതിനാൽ എപ്പോൾ വേണമെങ്കിലും ഏത് സ്ഥലത്തും ആർക്കും എപ്പോൾ വേണമെങ്കിലും എന്തും അങ്ങനെ ഏതെങ്കിലും വസ്തുക്കളും തരവും തമ്മിൽ കണക്ട് ചെയ്യാം അതിനാൽ ആളുകളെ ആശുപത്രികളിലേക്കും മറ്റൊരു തരത്തിലുള്ള നിരവധി സംവിധാനങ്ങളിലേക്കും കണക്റ്റുചെയ്യുന്നത് ആകാം അത് ഒരു തരം മൊബൈൽ ഉപാധി വഴിയാകാം അല്ലെങ്കിൽ മറ്റൊരു കാറുമായി കണക്റ്റുചെയ്തിരിക്കുന്ന കാർ പോലുള്ള കാര്യങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കാം അല്ലെങ്കിൽ പെട്രോൾ സ്റ്റേഷൻ അല്ലെങ്കിൽ മെക്കാനിക്സ് അല്ലെങ്കിൽ വർക്ക് ഷോപ്പുകൾ വസ്തുക്കളുടെ തരം അതിനാൽ ഒരു പ്രത്യേക വസ്തു ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിലോ മറ്റേതെങ്കിലും നെറ്റ്വർക്കിലേക്ക് അത് ട്രിഗർ ചെയ്യുകയാണെങ്കിലോ മറ്റും പെട്രോളിൽ കുറവുണ്ടെങ്കിൽ അത് ഡ്രൈവറിന് സന്ദേശം അയയ്ക്കുക മാത്രമല്ല അടുത്തുള്ള പെട്രോൾ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേഷൻ എന്താണെന്നും ആർക്കാണ് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക എന്നും തിരയുന്നു അതുപോലെ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ വർക്ക്ഷോപ്പും കാര്യങ്ങളും അതിനാൽ നിങ്ങൾ അടിസ്ഥാന ഐഒടി ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ അതിന് ആവശ്യമുള്ളത് വസ്തുക്കളാണ് അല്ലെങ്കിൽ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്നതിന് ഒരു ഗേറ്റ്വേ ആവശ്യമാണ് അത് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ക്ലൌഡ് ഇത് ഒരു ഗേറ്റ്വേ നെറ്റ്വർക്കും ക്ലൌഡും ആണ് അതിനാൽ ഇത് ഒരു കാറോ മൊബൈൽ ഉപകരണമോ ഒരു സ്മാർട്ട് വാച്ചോ അല്ലെങ്കിൽ താപനില സെൻസറോ അല്ലെങ്കിൽ ഒരു ഗേറ്റ്വേയിലൂടെ പോയി കണക്റ്റുചെയ്യാനാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും അതിനാൽ ഈ ഗേറ്റ്വേ ഇന്റർനെറ്റിന്റെ ബാക്കി കാര്യങ്ങളുമായി കണക്റ്റിവിറ്റി നൽകുന്നു അത് ക്ലൌഡ് ആകാം ഇത് മറ്റ് ഇൻഫ്രാസ്ട്രക്ചറും തരങ്ങളും ആകാം അതിനാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ താഴെയുള്ള അറ്റത്തുള്ള ഉപകരണങ്ങൾ MQTT അല്ലെങ്കിൽ HTTP വഴി ചില പ്രോട്ടോക്കോൾ അഗ്രഗേഷൻ എന്നിവയുണ്ട് അതിനാൽ എന്റർപ്രൈസ് സർവീസ് ബസും കാര്യങ്ങളും സന്ദേശ ബ്രോക്കറും ഉണ്ടായിരിക്കാം ഇവന്റ് പ്രോസസ്സിംഗ് അനലിറ്റിക്സിലേക്ക് ഇത് നല്ലതാണെന്ന് തോന്നുന്നതെന്തും അടിസ്ഥാനമാക്കി ഇവന്റ് പ്രോസസ്സിംഗിലേക്കും അനലിറ്റിക്സിലേക്കും പോകുന്നു ലെയറിന്റെ വലതുവശത്ത് വെബ് പോർട്ടൽ ഡാഷ്ബോർഡ് API മാനേജുമെന്റ് ഉണ്ട് അതിനാൽ ഇവ വ്യത്യസ്ത ഘടനകളാണ് അതിനാൽ ഇവ ഉപകരണ മാനേജർമാരാണ് ഇവ മുഴുവൻ ലംബത്തിലുമുള്ള ഐഡന്റിറ്റിയും ആക്സസ് മാനേജുമെന്റുമാണ് അതിനാൽ ഇത് എല്ലാ ഉപകരണങ്ങളും കൂടുതലോ കുറവോ പിന്തുടരുന്ന ജനറിക് അല്ലെങ്കിൽ അടിസ്ഥാന ഐഒടി വാസ്തുവിദ്യയാണ് എല്ലാ ഉപകരണങ്ങളും ശരിയാണെന്ന് സ്ഥിരീകരിക്കുന്നു ഏതാണോ അല്ലെങ്കിൽ പകരം ഞാൻ എല്ലാം ഉദ്ധരിക്കണമെന്ന് പറയണം ഉദ്ധരിക്കാത്ത കാര്യങ്ങളും സ്ഥിരീകരിക്കുന്നു അതിനാൽ ഐഒടി സിസ്റ്റങ്ങളുടെ നിരവധി വശങ്ങളുണ്ട് അതിലൊന്നാണ് ഐഒടി സിസ്റ്റത്തിന്റെ സ്കെയിലബിളിറ്റി പ്രശ്നം സൂചിപ്പിക്കുന്നത് നിരവധി സെൻസറുകളുടെ കാര്യത്തിലും മറ്റും ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നാണ് വളരെയധികം ഐഒടി ഉപകരണങ്ങളുണ്ടെന്നും അവയിൽ പലതിലും സെൻസിംഗ് അല്ലെങ്കിൽ ഡാറ്റാ ഏറ്റെടുക്കൽ തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെന്നും അല്ലെങ്കിൽ ഇവന്റ് ഡാറ്റ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു വലിയ ഡാറ്റാ പ്രശ്നമാണ് അത് പ്രോസസ്സ് ചെയ്യേണ്ട ഒരു വലിയ ഡാറ്റയുണ്ട് വിശകലനവും പ്രോസസ്സിംഗ് പ്രശ്നവും ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ ഒരു പങ്ക് ഞങ്ങൾ അവിടെ കണ്ടെത്തുന്നു അതിനാൽ ഐഒടിയുടെ കാര്യത്തിൽ സ്കെയിലിംഗിൽ മാത്രമല്ല സംഭരണം ഡാറ്റ കൂടാതെ ധാരാളം വിഭവങ്ങളുടെ ഞങ്ങളുടെ കഴിവുകളുടെ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഉപയോഗം പതിവായി ഉൾപ്പെടുന്നു സ്കെയിലിംഗ് പ്രവർത്തനങ്ങളുടെ കഴിവും വഴക്കവും അതിനാൽ ക്ലൌഡ് തരം മെക്കാനിസങ്ങളുടെ ആവശ്യകതയുണ്ട് ഓർമിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട് മിക്ക കേസുകളിലും ഇത് ഒരു തത്സമയ പ്രതിഭാസമാണ് അതിനാൽ പ്രോസസ്സിംഗ് മുതലായവയ്ക്ക് ഒരു തത്സമയ ഇടപെടൽ ആവശ്യമാണ് അതിനാൽ ഐഒടി സിസ്റ്റങ്ങൾ പലപ്പോഴും തത്സമയം പ്രവർത്തിക്കുന്നു ഇവന്റുകളുടെ പുരോഗതിയെക്കുറിച്ച് ഡാറ്റ നിരന്തരം പ്രവഹിക്കുന്നു ഒപ്പം ഇവന്റുകളുടെ സ്ട്രീമിലേക്ക് സമയബന്ധിതമായ പ്രതികരണങ്ങൾ സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടാകുകയും അങ്ങനെ ശേഖരിക്കുന്ന ഡാറ്റ തത്സമയം പ്രോസസ്സ് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഇത് നോക്കുമ്പോൾ വളരെയധികം വിതരണം ചെയ്യപ്പെടുന്നു ഒരു മുറിയിൽ നിന്ന് കെട്ടിടങ്ങളിലേക്കും ഒരു കാമ്പസ് അല്ലെങ്കിൽ നഗരം പോലുള്ള വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളിലേക്കും വ്യാപിക്കാൻ കഴിയുന്ന നിരവധി ഉപകരണങ്ങൾ അതിനാൽ ഇത് വളരെയധികം വിതരണം ചെയ്യപ്പെട്ടതാണ് ഇത് വിതരണം ചെയ്യുന്നതിനനുസരിച്ച് വ്യത്യസ്ത വസ്തുക്കൾ വ്യത്യസ്ത തരം ഉപകരണങ്ങൾ അവ കൈമാറുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഡാറ്റ എന്നിവയുടെ തരം അല്ലെങ്കിൽ സ്വപ്രേരിത വൈവിധ്യമാർന്ന പ്രവർത്തനം നടക്കുന്നു അല്ലെങ്കിൽ അത്തരം തരത്തിലുള്ള വൈവിധ്യമോ ഉണ്ടാകാം അതിനാൽ വ്യത്യസ്ത ഉപകരണങ്ങളുടെയും തരങ്ങളുടെയും വളരെ വൈവിധ്യമാർന്ന സെറ്റുകൾ ഉപയോഗിച്ചാണ് പലപ്പോഴും ഐഒടി സിസ്റ്റങ്ങൾ നിർമ്മിക്കുന്നത് ഇത് ആക്യുവേറ്ററുകളിലേക്കുള്ള സെൻസറുകൾക്ക് ബാധകമാണ് മാത്രമല്ല ചിലത് വൈഫൈ ഉപയോഗിച്ചേക്കാം ചിലത് സിഗ്ബി ബ്ലൂടൂത്തും മറ്റ് തരത്തിലുള്ള കാര്യങ്ങളും പോലുള്ള വിവിധ തരത്തിലുള്ള പുരോഗതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന നെറ്റ്വർക്കിനും ഇത് ബാധകമാണ് മാത്രമല്ല ഇത് ധാരാളം ഇന്ററോപ്പറബിളിറ്റി പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ഈ ഐഒടി ഗേറ്റ്വേകൾ ആവശ്യമാണ് അതിനാൽ ഇത് കൂടുതൽ പ്രാദേശികവൽക്കരിച്ച രീതിയിൽ പരിഹരിക്കപ്പെടും അതിനാൽ അത് ആശയവിനിമയം ചെയ്യുന്നതെന്തും അത് കൂടുതൽ പ്രാദേശികവൽക്കരിച്ച ഫാഷൻ ഗേറ്റ്വേയുമായി ആശയവിനിമയം നടത്തുന്നു ഈ മുറിയിൽ നിരവധി ഐഒടി ഉപകരണങ്ങൾ ഉണ്ടെന്നും ഈ ഉപകരണങ്ങളെ പരിപാലിക്കുന്ന ഒരു ഗേറ്റ്വേ എനിക്കുണ്ടെന്നും ഞാൻ പറയുന്നു അതിനാൽ ലോകത്തിന്റെ ബാക്കി ഭാഗങ്ങളോ റൂമിന് പുറത്തോ ഡാറ്റാ ഫോർമാറ്റുകളുടെ വൈവിധ്യമാർന്നത് അവ പ്രോസസ്സിംഗ് മെക്കാനിസങ്ങൾ കാര്യങ്ങളിൽ അവർ ചെയ്യുന്ന ആശയവിനിമയ മാതൃക ഗേറ്റ്വേ ശ്രദ്ധിക്കുന്നു ഇന്ററോപ്പറബിളിറ്റി അല്ലെങ്കിൽ ഈ ഐഒടി ഉപകരണങ്ങളുടെ വൈവിധ്യമാർന്ന പ്രശ്നം ഗേറ്റ്വേ പ്രതിനിധീകരിക്കുന്നു അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നു മറുവശത്ത് നമ്മൾ ധാരാളം ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് വശങ്ങൾ കണ്ടു അതിനാൽ നമ്മുടെ സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ സ്വതന്ത്രമായ കമ്പനികളെയോ എന്റർപ്രൈസ് ആപ്ലിക്കേഷനുകളെയോ കമ്പ്യൂട്ടിംഗ് ഒരു വശമായ ഇൻഫ്രാസ്ട്രക്ചർ ഫ്രീ ആയിരിക്കാൻ പ്രാപ്തമാക്കുന്നു ഇത് പേ ഉപയോഗിച്ചതും ആവശ്യപ്പെടുന്നതുമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഇത് ഇത്തരത്തിലുള്ള ഐഒടി കാര്യങ്ങൾക്ക് വളരെ സൌഹാർദ്ദപരമാണ് സംഭരണത്തിനും പ്രോസസ്സിംഗിനുമായി ക്ലയന്റുകൾക്ക് ഡാറ്റയും ആപ്ലിക്കേഷനും ക്ലൌഡിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയും ഇത് നൽകുന്ന പ്രശ്നങ്ങളാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗിലേക്കുള്ള സുരക്ഷയുടെ വശങ്ങളിലേക്ക് മൊബൈൽ കമ്പ്യൂട്ടിംഗ് പോലുള്ള നിരവധി ആപ്ലിക്കേഷനുകളോ സവിശേഷതകളോ ക്ലൌഡ് ഉണ്ടെന്ന് ഞങ്ങൾ ഇതിനകം കണ്ടുകഴിഞ്ഞു അതിനാൽ ഇൻഫ്രാസ്ട്രക്ചറിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ സേവനങ്ങൾ ഉപയോഗിക്കാൻ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് പ്രാപ്തമാക്കുന്നു അതിനാൽ സേവന ദാതാവാണ് സാസ് ലെവലിൽ എന്തും പറയുന്നു അത് അടിവരയിടുന്ന ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം എന്താണെന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നിങ്ങനെ പലതും ഒരു സമ്പദ്വ്യവസ്ഥ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു അതിനാൽ സ്കെയിലുകളുടെ സമ്പദ്വ്യവസ്ഥ ഉപയോഗിച്ചുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങൾ പറയുന്ന ഒരു സമ്പദ്വ്യവസ്ഥയുണ്ട് മാത്രമല്ല നിരവധി ആപ്ലിക്കേഷനുകൾക്ക് ഇത് വളരെ പ്രയോജനകരമാണ് പ്രത്യേകിച്ചും ഈ ഐഒടി തരം കാര്യങ്ങൾ ഉള്ള ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ഡാറ്റയും സേവനങ്ങളും വിദൂരമായി സംഭരിക്കപ്പെടുന്നു പക്ഷേ എവിടെനിന്നും ആക്സസ് ചെയ്യാവുന്നതാണ് എവിടെയും ഏതൊരാൾക്കും എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ കാണുന്നു അതിനാൽ ഇത് വീണ്ടും ഈ ഐഒടി ഓപ്പറേഷന് അല്ലെങ്കിൽ ഐഒടി മാതൃകയ്ക്ക് അനുയോജ്യമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഐഒടി ക്ലൌഡ് അതാണ് സ്വാഭാവികമായി പരിണമിച്ചത് നമ്മൾ അവയെ ഒന്നിച്ചുചേർക്കാൻ ശ്രമിക്കുന്നത് പോലെയല്ല ഈ രണ്ട് ആശയങ്ങളുടെയും സ്വാഭാവിക പരിണാമമോ ലയനമോ ആണ് അതിനാൽ ലോജിസ്റ്റിക്സ് സ്മാർട്ട് സിറ്റി ഹെൽത്ത് കെയർ എന്നിങ്ങനെയുള്ള നിർണായക ആപ്ലിക്കേഷനുകൾക്കായി നമ്മൾ കാണുന്ന കാര്യങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ വിശാലമായ പൊരുത്തപ്പെടുത്തലും വിന്യാസവുമുണ്ട് അതിനാൽ ഇത് ഡാറ്റാ സെന്ററുകളെ അടിസ്ഥാനമാക്കി ക്ലൌഡിൽ ഡാറ്റ സംഭരണ പ്രോസസ്സിംഗിനും മാനേജുമെന്റിനുമുള്ള ഉയർന്ന ഡിമാൻഡിലേക്ക് നയിച്ചു അതിനാൽ ഈ ഐഒടി ഉപകരണങ്ങൾ വ്യക്തിഗതമായി കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് എന്നിട്ടും നിങ്ങൾക്ക് ചില ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടായിരിക്കണം അവ കൈകാര്യം ചെയ്യാൻ എന്തുകൊണ്ട് ക്ലൌഡിന് കഴിയുന്നില്ല ക്ലൌഡ് സേവനങ്ങൾ പക്വതയുള്ളതും മികച്ച ഇലാസ്റ്റിക് കണക്കുകൂട്ടലും ഐഒടിയ്ക്കായി ഡാറ്റ മാനേജുമെന്റ് സ്കേലബിളിറ്റികളും നൽകുന്നു അതായത് ഡാറ്റാ മാനേജുമെന്റ് സ്കേലബിളിറ്റി നൽകാനുള്ള കഴിവ് ഇതിനുണ്ട് കൂടാതെ ഐഒടി സിസ്റ്റങ്ങൾ സങ്കീർണ്ണമാകുമ്പോൾ ഐഒടി ഘടകങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ക്ലൌഡ് മാനേജ്മെന്റ് ടെക്നിക്കുകൾ കൂടുതലായി ഉപയോഗിക്കുന്നു അതിനാൽ ഐഒടി സിസ്റ്റങ്ങൾ ഹാർഡ്വെയർ തിരിച്ചുള്ളത് മാത്രമല്ല പ്രോസസ്സിംഗ് തിരിച്ചുള്ള സിസ്റ്റങ്ങൾ സങ്കീർണ്ണമാവുകയാണ് ക്ലൌഡ് സേവനങ്ങൾ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടേഷണൽ ഡാറ്റ പ്രോസസ്സിംഗ് പ്ലാറ്റ്ഫോമായും ഐഒടിയുടെ മാനേജുമെന്റ് പ്ലാറ്റ്ഫോമായും പ്രവർത്തിക്കുന്നു അതിനാൽ ക്ലൌഡ് പ്ലാറ്റ്ഫോം ഒരു പ്രോസസ്സിംഗ് പ്ലാറ്റ്ഫോം ആകാം കൂടാതെ ഇത്തരത്തിലുള്ള ഐഒടി സിസ്റ്റത്തിനായുള്ള ഒരു ഡാറ്റ മാനേജുമെന്റ് പ്ലാറ്റ്ഫോം പ്രാദേശികവൽക്കരിച്ച രീതിയിലായിരിക്കാം കൂടുതൽ ആഗോളവൽക്കരിക്കപ്പെട്ട രീതിയിലോ അല്ലെങ്കിൽ ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ വ്യാപനത്തിലോ അല്ലെങ്കിൽ കൂടുതൽ സങ്കീർണ്ണമായ സാഹചര്യങ്ങളിലോ ആകാം അതിനാൽ ഐഒടിയും ക്ലൌഡ് സേവനങ്ങളും തമ്മിലുള്ള സംയോജനം ഐഒടിയും ക്ലൌഡ് സേവനങ്ങളും തമ്മിൽ തടസ്സമില്ലാതെ ഏകോപനം അനുവദിച്ചതായി നമ്മൾ കാണുന്നു അതായത് സെൻസിംഗ് ഡാറ്റയുടെ അളവ് കുറയ്ക്കുന്നതിന് നിരവധി ഐഒടി ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഐഒടി സേവനത്തിന് ഒരു ക്ലൌഡ് സേവനത്തിന് അഭ്യർത്ഥിക്കാൻ കഴിയും അല്ലെങ്കിൽ കൂടുതൽ വിഭവങ്ങൾ നൽകാൻ ഐഒടി സേവനത്തിന് ക്ലൌഡ് സേവനങ്ങളോട് അഭ്യർത്ഥിക്കാൻ കഴിയും അതിനാൽ വ്യക്തികൾക്കോ ഈ ഐഒടി സേവനങ്ങൾ ഉപയോഗിക്കുന്ന മറ്റ് തരത്തിലുള്ള സേവനങ്ങൾക്കോ എന്റർപ്രൈസുകൾക്ക് മികച്ച സേവനങ്ങൾ നൽകാൻ പരസ്പരം സഹായിക്കുന്ന ഒരു ഉദ്ധരണി ഉദ്ധരണി നമ്മൾ പറയുന്നത് ഇതാണ് അതിനാൽ ഐഒടിക്കായിട്ടുള്ള ക്ലൌഡ് ഘടകങ്ങൾ നോക്കാൻ ശ്രമിച്ചാൽ നിരവധി ലംബങ്ങളുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും അതിലൊന്നാണ് ഉപയോക്തൃ പാളി അതിൽ അന്തിമ ഉപയോക്തൃ അപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ ഐഒടി ഉപയോക്താക്കൾ ഉണ്ട് തുടർന്ന് ഈ ഉപയോക്തൃ ലെയറിനടുത്തുള്ള ഒരു പ്രോക്സിമിറ്റി നെറ്റ്വർക്ക് ഞങ്ങൾക്ക് ഉണ്ട് സെൻസർ ആക്യുവേറ്ററുകൾ ഏജന്റുകൾ ഫേംവെയർ നെറ്റ്വർക്ക് കണക്റ്റിവിറ്റി യൂസർ ഇന്റർഫേസ് ഉപകരണങ്ങൾ തുടങ്ങിയവയുണ്ട് ഈ ഭാഗം പൊതു നെറ്റ്വർക്കുകളുമായി ബന്ധിപ്പിക്കുന്ന ഈ ഐഒടി ഗേറ്റ്വേ ഇവിടെയുണ്ട് അതിനാൽ പ്രോക്സിമിറ്റി നെറ്റ്വർക്ക് കണക്റ്റുചെയ്തിരിക്കുന്ന ഐഒടി ഉപകരണങ്ങളോ അപ്ലിക്കേഷനുകളോ വീണ്ടും വൈവിധ്യമാർന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു വ്യത്യസ്ത ഐഒടി ഉപകരണങ്ങൾക്ക് കാര്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ കഴിയും മാത്രമല്ല ഈ ഐഒടി ഗേറ്റ്വേ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഒരു പിയർ ക്ലൌഡിലൂടെ മറ്റ് തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നു അതിനാൽ ഒരു ആപ്ലിക്കേഷൻ ലോജിക് അനലിറ്റിക്സ് ഏജന്റ് കണക്റ്റുചെയ്യാനാകും അതിനാൽ ഇതിന് ഒരു ഉപയോക്തൃ ഡയറക്ടറിയും മറ്റും ഉണ്ട് അതിനാൽ വ്യത്യസ്ത പാളികളുണ്ടെന്ന് നിങ്ങൾ കണ്ടു അതിനാൽ പബ്ലിക് നെറ്റ്വർക്കിലേക്ക് കണക്റ്റുചെയ്തിരിക്കുന്ന ഒരു ഗേറ്റ്വേയിലൂടെ ഉപയോക്തൃ ലെയർ പ്രോക്സിമിറ്റി നെറ്റ്വർക്ക് ഇവ ഒരു ദാതാവിന്റെ ക്ലൌഡിലേക്ക് കണക്റ്റുചെയ്യുന്നു ആവശ്യമെങ്കിൽ മറ്റൊരു തരത്തിലുള്ള സേവനങ്ങൾ ആക്സസ്സുചെയ്യുന്നതിന് ഒരു എന്റർപ്രൈസ് നെറ്റ്വർക്കിലേക്ക് പോകുന്നു എനിക്ക് ഒരു കാർ ഉണ്ടെന്ന് ഞാൻ പറയുന്നു ഇത് ചില അപാകതകൾ കണ്ടെത്തുന്നു ക്ലൌഡിൽ നിന്ന് വ്യത്യസ്ത ഡാറ്റയിൽ നിന്ന് മാത്രമല്ല മറ്റ് തരത്തിലുള്ള പാരിസ്ഥിതിക ഡാറ്റയുമായി ക്ലൌഡിലേക്ക് കണക്റ്റുചെയ്യാൻ ഇത് ചില ഗേറ്റ്വേ ഉപയോഗിക്കുന്നു ഇത് ചില അനലിറ്റിക്സ് ചെയ്യുന്നു തുടർന്ന് അത് ആ പ്രത്യേക കാർ നിർമ്മാതാവ് അല്ലെങ്കിൽ കാറുമായി ബന്ധപ്പെട്ട സേവന ദാതാവ് അല്ലെങ്കിൽ വർക്ക് ഷോപ്പ് എന്നിവയിലേക്ക് ട്രിഗർ ചെയ്തേക്കാം ആ എന്റർപ്രൈസിലേക്ക് പോയി ഫീഡ്ബാക്ക് നേടുകയും മറ്റും അതിനാൽ ചിലത് പറയുക ഒരു സേവന വാഹനം നൽകുക അല്ലെങ്കിൽ ഡ്രൈവർക്ക് അലേർട്ട് അയയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഞങ്ങൾ പറയുന്ന തിരുത്തൽ നടപടികൾ അതിനാൽ ഇത്തരത്തിലുള്ള വശം ഉണ്ടാകാം അതിനാൽ ഐസിഓഎംഓടി സോഫ്റ്റ്വെയർ ലെയർ ഒരു സാധാരണ ഉദാഹരണമാണ് അതിനാൽ ഇൻറർനെറ്റ് ഓഫ് ക്ലൌഡ് സിസ്റ്റങ്ങൾ പ്രവർത്തനക്ഷമമാക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശ്യം അതിനാൽ കണക്റ്റിവിറ്റി പ്രോട്ടോക്കോൾ എംക്യുടിടി പരിശോധിച്ചാൽ ഈ ഐഒടിയും ക്ലൌഡും തമ്മിൽ ഒരു ഏകീകൃത കാരണമുണ്ട് അതിനാൽ ഒരു ഐഒടി പരിതസ്ഥിതിയിൽ പതിവ് ഡാറ്റ ക്ലൌഡ് സേവനങ്ങൾ വികസിപ്പിക്കുന്നതിന് ഒരു ചെറിയ ഉദാഹരണമുണ്ട് അതിനാൽ വർദ്ധിച്ചുവരുന്ന ട്രാഫിക് സേവനങ്ങൾ തുടങ്ങിയ നൂതനമായ രണ്ട് വാഹന ക്ലൌഡ് സേവനങ്ങൾ ഈ പ്രചോദനാത്മക ഉദാഹരണങ്ങളാണ് അതിനാൽ ഈ ഒരു വശത്ത് നോക്കിയാൽ ഈ ഐഒടി കാര്യങ്ങൾ ഉണ്ട് ഇത് ഐഒടി അടിസ്ഥാനമാക്കിയുള്ള വാഹന ഡാറ്റാ ക്ലൌഡിന്റെ വാസ്തുവിദ്യയാണ് അതിനാൽ വ്യത്യസ്ത സെൻസർ ആക്യുവേറ്റർ പോലുള്ള ആശയവിനിമയ സാങ്കേതികവിദ്യയെ അനുവദിക്കുന്ന ഒരു മധ്യ പാളി നമുക്ക് ഉണ്ട് അതിനാൽ ഇത് ശരിയായ തീരുമാനമെടുക്കലിനായി ഈ ഐഒടി ഉപകരണങ്ങളും ക്ലൌഡും തമ്മിലുള്ള വിവരങ്ങൾ ലയിപ്പിക്കുന്നതിനെ പ്രാപ്തമാക്കുന്നു അല്ലെങ്കിൽ പൂർണ്ണമായ തീരുമാനമെടുക്കൽ അല്ലെങ്കിൽ ഒരുതരം തത്സമയ തീരുമാനമെടുക്കൽ എന്നർത്ഥം അതിനാൽ ഐഒടി അടിസ്ഥാനമാക്കിയുള്ള വെഹിക്കിൾ ഡാറ്റ ക്ലൌഡിന്റെ നിബന്ധനകളിൽ ഒരു സുരക്ഷയെന്ന നിലയിൽ നമ്മൾ പറയുന്നത് അനുബന്ധ സേവനം അതിനാൽ സമാനമായി മറ്റൊരു ആപ്ലിക്കേഷൻ ഐഒടി ക്ലൌഡ് സേവനം ഉപയോഗിച്ച് ഇന്റലിജന്റ് പാർക്കിംഗ് ഉണ്ട് അതിനാൽ ഒരു പ്രത്യേക കാറിന് വ്യത്യസ്ത സമയ സ്റ്റാമ്പിംഗ് ഉപയോഗിച്ച് ഒരു സെൻസർ ഉപയോഗിച്ച് കണ്ടെത്താനാകും ലെയ്ൻ അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് ഒരു ഒഴിവും തരവും ഉള്ളത് അടുക്കുന്നതിന് മുമ്പ് പൈപ്പ് പാർക്കിംഗ് സ്ഥലം ഈ ഐഒടിയെ ഗേറ്റ്വേ വഴി ക്ലൌഡിലേക്കുള്ള പ്രവർത്തനക്ഷമമാക്കുന്നത് എവിടെയാണ് ഒഴിവുകൾ ഉള്ളതെന്ന് കണ്ടെത്താൻ കഴിയും അതിനാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്ന ആ ആപ്ലിക്കേഷൻ നോക്കുന്നതിനുള്ള ഒരു മാർഗമാണിത് അതിനാൽ IoT എന്നത് ചുരുക്കത്തിൽ ചലനാത്മകവും തീർച്ചയായും ആവേശകരവുമായ മേഖലയാണ് IoT സിസ്റ്റങ്ങൾ കൂടുതൽ കൂടുതൽ സൃഷ്ടിക്കാൻ പോകുന്നു IoT സംവിധാനങ്ങൾ വരാൻ പോകുന്നു ഗാർഹിക വാണിജ്യ വ്യാവസായിക ആരോഗ്യം വ്യത്യസ്ത സന്ദർഭങ്ങൾ എന്നിവയ്ക്ക് ഇതിന് വലിയ അളവിൽ പ്രോസസ്സിംഗ് സംഭരണ ആവശ്യകതകൾ ഉണ്ടായിരിക്കും സ്കെയിലിംഗ് അല്ലെങ്കിൽ സുരക്ഷ സുരക്ഷ സ്വകാര്യത എന്നിവ പ്രോസസ്സ് ചെയ്യുന്ന വേഗത പോലുള്ള നിരവധി വെല്ലുവിളികളെ ഇത് അഭിമുഖീകരിക്കുന്നു മറുവശത്ത് ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമുകൾ സംഭരണ പ്രോസസ്സിംഗിന്റെ കാര്യത്തിൽ ധാരാളം വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള കഴിവ് വാഗ്ദാനം ചെയ്യുന്നു ഒപ്പം വഴക്കമുള്ള അളക്കാവുന്ന പ്രോസസ്സിംഗ് ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട് അതിനാൽ ഈ ഐഒടി ക്ലൌഡ് പ്ലാറ്റ്ഫോമുകൾ നിരവധി ഫ്യൂച്ചറിസ്റ്റ് ആപ്ലിക്കേഷനുകൾക്കായി പ്രാപ്തമാക്കുന്ന ഒരു സാങ്കേതികവിദ്യയായി മാറുന്നു എന്നതാണ് ഇത് ചില വാണിജ്യ ആപ്ലിക്കേഷനുകൾ വ്യാവസായിക ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ വ്യക്തിഗത ആപ്ലിക്കേഷനായിരിക്കാം കൂടാതെ നിരവധി തരം ആപ്ലിക്കേഷനുകളും പ്രോസസ്സിംഗ് ആവശ്യങ്ങളും അതിനാൽ ക്ലൌഡ് ഐഒടി സെൻസറുകൾ ഉപകരണങ്ങളുടെ വ്യത്യസ്ത വശങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ആശയവിനിമയം നടത്താനും ഡാറ്റ നിർമ്മിക്കാനും ഇന്റർനെറ്റുമായി ആശയവിനിമയം നടത്താനുമുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന അടുത്ത കാര്യമാണിത് IoT ക്ലൌഡിന്റെ ഈ പ്രത്യേക വശത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് ഇവിടെ നിർത്തും